ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മറ്റൊന്ന് കാണിച്ചുതരാം ഈ കേസുകൾ കൂടുതൽ സങ്കീർണ്ണമായേക്കാം എന്നാൽ ലാളിത്യത്തിനായി മുമ്പ് ഉണ്ടായിരുന്നതിന് സമാനമായ ഒന്ന് ഞാൻ ഉപയോഗിക്കും നിങ്ങൾക്ക് ഈ മുഴുവൻ സർക്യൂട്ടും നൽകിയിട്ടുണ്ടെന്ന് പറയട്ടെ AB ടെർമിനലുകൾക്കിടയിൽ തെവെനിൻ തുല്യത കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു അതായത് A B എന്നിവയ്ക്കിടയിലുള്ള തെവെനിൻ വോൾട്ടേജും തെവെനിൻ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അത് 2 പോർട്ട് പാരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ ചെയ്യാം അതിനാൽ ഈ സാഹചര്യത്തിൽ രണ്ട് പോർട്ടുകളും y പാരാമീറ്ററുകൾക്ക് പകരം Z പാരാമീറ്ററുകളാണ് വിവരിച്ചിരിക്കുന്നതെന്ന് ഞാൻ അനുമാനിക്കാം അതിനാൽ എനിക്ക് എന്തായിരിക്കും എനിക്ക് ഈ V1 I1 V2 I2 ഉണ്ട് V1 എന്നത് z11 I1 z12 I2 V2 എന്നത് z21 I1 z22 I2 ആണെന്ന് എനിക്കറിയാം തെവെനിൻ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ അതായത് ഞാൻ A യും B യും തമ്മിൽ ഒന്നും ബന്ധിപ്പിക്കുന്നില്ല എനിക്ക് ഒരു ഓപ്പൺ സർക്യൂട്ട് ഉണ്ട് V2 കണ്ടെത്തുക ഈ പ്രത്യേക സർക്യൂട്ടിൽ നിങ്ങൾക്ക് A യും B യും തമ്മിൽ ഒരു ഓപ്പൺ സർക്യൂട്ട് ഉണ്ടെങ്കിൽ I2 0 ആയിരിക്കും ഇത് എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല ഈ പ്രത്യേക ഉദാഹരണത്തിൽ ഇതാണ് അതിനാൽ Vth കണക്കുകൂട്ടലിനായി ഈ സർക്യൂട്ടിൽ I2 0 ആണ് അത് എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ കുറച്ച് ലോഡ് കണക്റ്റർ ഉണ്ടായിരിക്കാം ഈ സാഹചര്യത്തിൽ I2 0 ആയിരിക്കില്ല അതിനാൽ V2 എന്നത് Z21× × I1 ആയിരിക്കും അതാണ് Vth ഇവിടെ ദൃശ്യമാകുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഇപ്പോൾ എന്താണ് I1 നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കണ്ടെത്താനാകും Vs V1 Rs I1 ആണെന്നും V1 എന്നത് z11 I1 ആണെന്നും നമുക്കറിയാം കാരണം I2 എന്നത് 0 ആണ് അതിനാൽ ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ചേർത്താൽ നമുക്ക് I1 എന്നത് Vs Rs × 1 1 z11 Rs ആയി ലഭിക്കും അതിനാൽ കണക്കുകൂട്ടലിൽ നിന്ന് പുറത്തുവരുന്നത് ഇതാണ് V2 z21 × ഈ മൂല്യം ആയിരിക്കും അതിനാൽ ഇത് Vs × z21 Rs z11 ആണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇത് Vs × z21 Rs z11 ആയിരിക്കും ഇപ്പോൾ നമുക്ക് തെവെനിൻ റെസിസ്റ്റൻസ് കണ്ടെത്തേണ്ടതുണ്ട് അതിനായി നമ്മൾ സ്വതന്ത്ര സ്രോതസ്സായ Vs നെ 0 ആയി സജ്ജീകരിക്കുന്നു നമ്മൾക്ക് Rs ഉണ്ട് റെസിസ്റ്റൻസ് കണ്ടെത്തേണ്ടതുണ്ട് ഇതിലേക്ക് തിരിഞ്ഞുനോക്കുമ്പോൾ ഇത് V2 I2 ആണ് ഇത് I2 ആണ് ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ കറൻറ് സ്രോതസ് വയ്ക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാരാമീറ്ററുകളുമായി ഇതിന് ബന്ധമില്ല ഇത് z പാരാമീറ്ററുകളാൽ വിവരിച്ചിരിക്കുന്നു പക്ഷേ എനിക്ക് ഈ വശത്ത് ഒരു വോൾട്ടേജ് സ്രോതസ് പ്രയോഗിക്കാൻ കഴിയും z പാരാമീറ്ററുകളുടെ കാര്യത്തിൽ പരാമീറ്ററുകൾ അളക്കുന്നതിന് മാത്രമാണ് നമ്മൾ കറൻറ് സ്രോതസ് പ്രയോഗിക്കുന്നത് അതിനാൽ ഞാൻ പരിശോധിക്കുന്ന കറൻറ് സ്രോതസ് പ്രയോഗിക്കുന്നുവെന്ന് പറയട്ടെ I2 Itest ന് തുല്യമാണെന്ന് നിങ്ങൾ വ്യക്തമായി കാണുന്നു അതിനാൽ എനിക്ക് കണ്ടെത്തേണ്ടത് V2 I2 എന്ന അനുപാതമാണ് അതാണ് A B എന്നീ ടെർമിനലുകൾക്കിടയിൽ ഉള്ള റെസിസ്റ്റൻസ് എനിക്ക് ഈ V1 ഉം I1 ഉം ഉണ്ട് ഇപ്പോൾ വീണ്ടും നമുക്ക് V1 എന്നത് z11 I1 z12 I2 ഉം V2 എന്നത് z21 I1 Z22 I2 ഉം ആണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ റെസിസ്റ്റൻസ് ഉള്ളതിനാൽ ഓംസ് നിയമപ്രകാരം V1 നും I1 നും ഇടയിൽ നമ്മൾക്ക് ഒരു ബന്ധവും ഫോഴ്സും ഉണ്ട് അതിനാൽ V1 I1 × Rs ആണ് ഇത് തിരഞ്ഞെടുത്ത വേരിയബിളുകളുടെ ദിശ കാരണം ആണ് I1 ഇത് പുറത്തേക്ക് ഒഴുകുന്നു അതേസമയം V1 ഈ ധ്രുവതയോടെ നിർവചിച്ചിരിക്കുന്നു ഓർക്കുക നമുക്ക് V2 I2 കണ്ടെത്തേണ്ടതുണ്ട് അതായത് ഈ രണ്ട് സമവാക്യങ്ങളിൽ നിന്നും നമ്മൾ V1 ഉം I1 ഉം ഒഴിവാക്കണം അതിനാൽ ഞാൻ ഇത് മാറ്റിസ്ഥാപിച്ചാൽ എനിക്ക് I1 Rs എന്നത് z11 I1 z12 I2 ലഭിക്കും ഇതിൽ നിന്ന് എനിക്ക് I1 z12 z11 Rs × I2 ആയി ലഭിക്കും ഞാൻ ഇത് മറ്റൊരു സമവാക്യത്തിൽ പകരം വയ്ക്കുകയും ചെയ്യും എനിക്ക് V2 എന്നത് z21 × I1 ആയി ലഭിക്കും അതായത് z21 z12 z11 Rs × I2 z22 × I2 ആയി ലഭിക്കും തെവെനിൻ റെസിസ്റ്റൻസ് മറ്റൊന്നുമല്ല V2 I2 I2 എന്നത് Itest ന് തുല്യമാണ് നിങ്ങൾ എവിടെ Itest പ്രയോഗിച്ചാലും V2 എന്നത് വികസിപ്പിച്ച വോൾട്ടേജാണ് ഇത് z22 z21 z12 z11 Rs ആയി വരും അതിനാൽ അതാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതിനാൽ മൊത്തത്തിൽ ഇത് ഇതിനേക്കാൾ കൂടുതൽ സങ്കീർണ്ണമായേക്കാം ഇത് തെവെനിൻ സ്രോതസ്സിനും തെവെനിൻ റെസിസ്റ്റൻസ് ഉള്ള സീരീസിനും തുല്യമാണ് ഇവിടെ തെവെനിൻ വോൾട്ടേജ് സ്രോതസ് Vs × z21 ന് Rs z11 നൽകുന്നു ഇത് ഈ നെറ്റ്വർക്കിനെയും അതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന വോൾട്ടേജ് സ്രോതസിനെയും റെസിസ്റ്റൻസിനെയും ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ കാണുന്നു കൂടാതെ Rth എന്നത് z22 z21 z12 z11 Rs ആണ് അതിനാൽ നമുക്ക് രണ്ട് പോർട്ടുകളും കുറച്ച് സർക്യൂട്ടും ഉണ്ടായിരിക്കാം കൂടാതെ രണ്ട് പോർട്ടുകൾ ഉപയോഗിച്ച് മുഴുവൻ കാര്യവും തെവെനിൻ തുല്യമായ സർക്യൂട്ട് പോലെ പ്രതിനിധീകരിക്കാം അതിനാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നിരവധി കണക്കുകൂട്ടലുകൾ ഉണ്ട് തത്വം എല്ലായ്പ്പോഴും സമാനമാണ് നിങ്ങൾ രണ്ട് പോർട്ട് പാരാമീറ്ററും അവ സൂചിപ്പിക്കുന്ന ബന്ധവും ഉപയോഗിക്കുന്നു അതായത് രണ്ട് പോർട്ടുകൾക്കുള്ള വോൾട്ടേജുകളും കറണ്ട്കളും നിങ്ങൾക്ക് ഉണ്ട് കൂടാതെ നിങ്ങൾക്ക് വോൾട്ടേജുകളും കറണ്ട്കളും തമ്മിൽ കുറച്ച് ബന്ധമുണ്ട് കൂടാതെ രണ്ട് പോർട്ടുകൾക്ക് പുറത്ത് നിങ്ങൾ ബന്ധിപ്പിക്കുന്ന സർക്യൂട്ട് ഈ എല്ലാ സമവാക്യങ്ങളും പരിഹരിച്ചും ചില വേരിയബിളുകൾ ഒഴിവാക്കിയും ഈ വേരിയബിളുകളിൽ ചിലത് തമ്മിൽ ചില ബന്ധം സ്ഥാപിച്ചും നിങ്ങൾക്ക് ആവശ്യമുള്ളത് കണ്ടെത്താനാകും